നമുക്കിപ്പോൾ എന്താണ് ഈ അവകാശങ്ങൾ എന്നും അവ എന്താണ് പ്രത്യക്ഷമാക്കുന്നത് അഥവാ പ്രകാശിപ്പിക്കുന്നത് എന്നും ഒന്ന് ഓടിച്ചു നോക്കാം പേറ്റന്റ്സ് എക്സ്ക്ലൂസിവ് റൈറ്റ് നൽകുന്നു അത് നൽകുന്നത് ഗവൺമെൻറ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ക്ലൂസീവിറ്റി അർത്ഥമാക്കുന്നത് പേറ്റന്റ് ഓണർക്ക് മറ്റുള്ള ആളുകളെ തടയുന്നതിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ടാക്കുന്നതിനും വിൽക്കുന്നതിനും വിൽപ്പനയ്ക്ക് വെക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും ഉള്ള അവകാശം ഒരു പ്രത്യേക കാലത്തേക്ക് അതായത് 20 വർഷത്തെയ്ക്ക് ലഭിക്കുന്നു എന്നുമാണ് 20 വർഷ കാലാവധി എന്നത് പേറ്റന്റിന് അപേക്ഷ വെച്ച ദിവസം മുതൽ ആണ് അതിനു ശേഷം ഇത് പൊതുസഞ്ചയത്തിലേക്ക് മാറ്റപ്പെടുന്നു എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും ലഭിക്കുന്നു നിങ്ങൾ രജിസ്ട്രേഷൻ നടപടികളുമായി പോവുകയാണെങ്കിൽ കോപ്പിറൈറ്റും ഗവൺമെൻറ് നൽകുന്ന ഒരു എക്സ്ക്ലുസീവ് റൈറ്റ് ആണ് അല്ലാത്തപക്ഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ നിങ്ങൾ പ്രസാധനം ചെയ്ത പുസ്തകത്തിൽ അല്ലെങ്കിൽ വെബ്പേജിൽ ഒരു കോപ്പി റൈറ്റ് നോട്ടീസ് അച്ചടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് നിലവിൽ വരാൻ കോപ്പിറൈറ്റ് നോട്ടീസ് ഇടുമ്പോൾ നിങ്ങളുടെ പേരും പ്രസാധനം ചെയ്ത വർഷവും രേഖപ്പെടുത്തേണ്ടതാണ് മിക്കവാറും എല്ലാ കൃതികളിലും നിങ്ങൾ ഈ കോപ്പിറൈറ്റ് നോട്ടീസ് കണ്ടുകാണും അതൊരു പ്രത്യേക ക്രമീകരണത്തിൻറെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നൽകുന്ന അവകാശമാണ് പ്രസാധനം ചെയ്യുമ്പോഴേ അതിന്മേൽ നിങ്ങളാണ് അതിൻറെ അവകാശി എന്ന് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് കോപ്പിറൈറ്റ് നിലവിൽ വരുന്നത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തു ഗവൺമെൻറ് നിങ്ങൾക്ക് അതിനുള്ള അനുമതി തരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ കോപ്പിറൈറ്റ് നോട്ടീസ് അതിൽ ഉൾപ്പെടുത്തുമ്പോഴോ ആണ് കോപ്പിറൈറ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുവാൻ രജിസ്ട്രേഷൻ നിർബന്ധമല്ല നിങ്ങളുടെ ലൈബ്രറിയിൽ ഉള്ള പുസ്തകങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കോപ്പിറൈറ്റ് നോട്ടീസ് മൂലം കോപ്പിറൈറ്റ് അവകാശം ഉള്ളവയായി മാറുന്നു അതിനായി പ്രത്യേക രജിസ്ട്രേഷൻ ആവശ്യമില്ല മിക്കവാറും എല്ലാ വെബ്സൈറ്റുകളുടെയും അടിഭാഗത്ത് കോപ്പിറൈറ്റ് അവകാശപ്പെട്ട് കൊണ്ടുള്ള നോട്ടീസ് കാണുവാൻ സാധിക്കും അതിനർത്ഥം വെബ് സൈറ്റിൽ കൊടുത്തിരിക്കുന്ന എല്ലാ വിവരങ്ങളും കോപ്പിറൈറ്റ് നിയമത്തിന് കീഴിൽ വരുന്നവയാണ് അവയുടെ പകർപ്പ് എടുക്കുന്നത് അനുവാദത്തോടു കൂടെ വേണമെന്നും ഉള്ളതാണ് എന്നാൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വെബ് സൈറ്റുകളുടെ കാര്യത്തിൽ നമുക്ക് കോപ്പി പേസ്റ്റ് copy paste ചെയ്യേണ്ട ആവശ്യമില്ല ഈ വെബ്സൈറ്റിലേക്കുള്ള ഒരു ഹൈപ്പർലിങ്ക് നേരിട്ട് കൊടുക്കുവാൻ സാധിക്കും ഈ അർത്ഥത്തിൽ കോപ്പിറൈറ്റ് നോട്ടീസ് വെബ് സൈറ്റുകളുടെ കാര്യത്തിൽ സാധുതയില്ലാത്തതായി മാറുന്നു അതായത് പകർപ്പ് എടുക്കാതെ തന്നെ ഈ വെബ്സൈറ്റിലേക്ക് ഹൈപ്പർ ലിങ്കിലൂടെ പ്രവേശനാനുമതി നൽകാൻ സാധിക്കും ഹൈപ്പർ ലിങ്കിലൂടെ വേറൊരാളുടെ ശ്രദ്ധയിലേക്ക് ആ വെബ്സൈറ്റിലെ വിവരങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചാലും വെബ്സൈറ്റിൽ ഉള്ള ശരിയായ ഓണറുടെ ലോഗോയും മറ്റും അദ്ദേഹത്തിന് കാണാൻ സാധിക്കുമല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ലോഗോ ട്രേഡ്മാർക്ക് വഴിയാണ് സംരക്ഷിക്കപ്പെടുന്നത് കോപ്പിറൈറ്റ് നോട്ടീസ് കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നത് വെബ്സൈറ്റിലെ വിവരങ്ങളാണ് ഈ വിവരങ്ങളുടെ അനേകം പകർപ്പുകൾ എടുത്ത് അത് വേറെ ആളുകളുടെ വെബ്സൈറ്റിലേക്ക് നൽകാവുന്ന സാധ്യതയ്ക്കാണ് കോപ്പിറൈറ്റ് തടയിടുന്നത് ഹൈപ്പർ ലിങ്ക് വഴി വെബ്സൈറ്റുകളാണ് ഒരാൾ പരിചയപ്പെടുത്തുക ഉദാഹരണത്തിന് മെഴ്സിഡസ് ബെൻസിൻറെയോ Mercedes Benz's ടാറ്റാ മോട്ടോഴ്സിൻറെയോ Tata motor's വെബ്സൈറ്റുകൾ ഹൈപ്പർ ലിങ്ക് വഴി മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കും ആ വെബ്സൈറ്റുകൾ തുറന്നു അതിലെ വിവരങ്ങൾ വായിച്ചു മനസ്സിലാക്കുന്നതിന് ആളുകൾക്ക് സാധിക്കുന്നതാണ് ഇപ്പോൾ വിദ്യാർഥികൾക്ക് ഉണ്ടാകാവുന്ന ഒരു സംശയം ഇതായിരിക്കും അതായത് ഒരു വെബ്സൈറ്റിൻറെ അതേപേരിൽ മറ്റൊരു വെബ്സൈറ്റ് വേറൊരാൾക്ക് തുടങ്ങുവാൻ സാധിക്കുമോ എത്ര നാളുകൾക്ക് ശേഷം ആണ് അത് സാധിക്കുക എന്നത് ഇക്കാര്യം കോപ്പി റൈറ്റ് നിയമങ്ങളുടെ പരിധിക്കുള്ളിൽ വരുന്നതല്ല കമ്പനിയുടെ പേരും വെബ്സൈറ്റിൻറെ പേരും എല്ലാം രജിസ്റ്റർ ചെയ്തു സംരക്ഷിക്കേണ്ടതാണ് കോപ്പിറൈറ്റ് വഴി പേരുകൾ സംരക്ഷിക്കപ്പെടുന്നില്ല കമ്പനീസ് ആക്ടിൽ അതിനുള്ള സാധ്യതകളുണ്ട് രജിസ്റ്റർ ചെയ്ത് സംരക്ഷിക്കുവാൻ കോപ്പിറൈറ്റ് നിയമത്തിൽ സാധ്യതകൾ ഇല്ല ഡൊമെയ്ൻ രജിസ്ട്രേഷൻ സർവീസ് തന്നെ നിലവിലുണ്ട് അതുപ്രകാരം ഒരാൾക്ക് തൻറെ കമ്പനിയുടെ പേര് രജിസ്റ്റർ ചെയ്തു അത് മറ്റൊരാൾ ഉപയോഗിക്കാത്ത രീതിയിൽ സംരക്ഷിക്കുവാൻ സാധിക്കും ഇത് കാലാകാലങ്ങളിൽ പുതുക്കി ദീർഘ കാലത്തേക്ക് ഇങ്ങനെ സംരക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് പറഞ്ഞുവരുന്നത് ഇതാണ് കോപ്പിറൈറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കമ്പനിയുടെ പേരുകൾ സംരക്ഷിക്കുവാൻ സാധിക്കുന്നതല്ല കമ്പനീസ് ആക്ട് പോലുള്ള ഭരണഘടനയിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ട് അതുപ്രകാരം പേരുകൾ രജിസ്റ്റർ ചെയ്തു സംരക്ഷിക്കാവുന്നതാണ് കോപ്പിറൈറ്റ് അവകാശം അഥവാ പകർപ്പവകാശം ഒന്നിൽ കൂടുതൽ അവകാശങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ അച്ചടിക്കുന്നതിനോ പ്രസാധനം ചെയ്യുന്നതിനോ പ്രകടിപ്പിക്കുന്നതിനോ ഉള്ള അവകാശങ്ങൾ അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നു കോപ്പിറൈറ്റ് കാലാവധി നിർമ്മാതാവിൻറെ ജീവിതകാലവും അതിനുശേഷം 60 വർഷവുമാണ് അതായത് ഉൽപ്പന്നം നിർമ്മിക്കപ്പെട്ട ദിവസം മുതൽ അതിൻറെ നിർമാതാവ് മരിക്കുന്നത് വരെയും അദ്ദേഹത്തിൻറെ മരണശേഷം തുടർന്ന് 60 വർഷത്തേക്കുമാണ് കോപ്പിറൈറ്റ് കാലാവധി നിങ്ങളുടെ സംശയം ഇതായിരിക്കാം നിർമാതാവ് ഒരു വ്യക്തി അല്ലാതെ ഒരു സ്ഥാപനം ആണെങ്കിലോ കാലാവധി എത്ര വർഷത്തേക്കാണ് നിർമാതാവ് ഒരു സ്ഥാപനം ആണെങ്കിൽ അത് ചില രാജ്യങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതിനു ശേഷം 60 വർഷത്തേക്കും ചില രാജ്യങ്ങളിൽ അത് 50 വർഷത്തേക്കുമാണ് അമേരിക്കയിൽ ആണെങ്കിൽ അത് 60 വർഷത്തിൽ കൂടുതൽ ആണ് ട്രിപ്സ് കരാർ പോലെ ഒരു കരാർ കോപ്പി റൈറ്റിൻറെ കാര്യത്തിൽ ഇല്ലാത്തതിനാൽ കോപ്പിറൈറ്റ് കാലാവധി പല രാജ്യങ്ങളിൽ പല വർഷങ്ങളാണ് എല്ലാ രാജ്യങ്ങളും ഒരുപോലെയല്ല കോപ്പിറൈറ്റ് കാല പരിധി നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഒരു ഏകീകൃത നിയമം കോപ്പിറൈറ്റിന് ഇല്ല നമുക്ക് ട്രേഡ് മാർക്ക് എടുക്കാം ട്രേഡ് മാർക്കുകൾ എക്സ്ക്ലൂസിവ് റൈറ്റ്സ് പ്രദാനം ചെയ്യുന്നു ഗവൺമെൻറ് ആണ് ഈ അവകാശം അനുവദിച്ചു തരുന്നത് ട്രേഡ് മാർക്കുകൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാം ദീർഘകാലത്തെ ഉപയോഗം കൊണ്ട് അത് വ്യവസ്ഥാപിതമാക്കുകയും ചെയ്യാം വ്യവസ്ഥാപിതം ആക്കുക എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ ഉള്ള ഒരു വ്യവസായത്തിൻറെ ട്രേഡ് മാർക്കാണ് ഐകെഇഎ ഇപ്പോൾ അത് വളരെ പതുക്കെ നമ്മുടെ നാട്ടിലും വരുന്നുണ്ട് എന്നാൽ ഐകെഇഎ യൂറോപ്പിൽ ഉപയോഗിച്ചിരുന്നതാണ് അവർ ഇവിടെ ഇന്ത്യയിൽ ഒരു വിൽപ്പനയും നടത്തിയിരുന്നില്ല എന്ന് നമുക്ക് ഊഹിക്കാം ഏതെങ്കിലും ഒരു ഇന്ത്യൻ വ്യവസായി ഐകെഇഎ തൻറെ സ്ഥാപനത്തിൻറെ പേരായി ഇവിടെ ഇന്ത്യയിൽ ഉപയോഗിക്കുവാൻ തുടങ്ങുകയാണ് എങ്കിൽ യൂറോപ്പിലുള്ള ഐകെഇഎ വ്യവസായിക്ക് ഇന്ത്യയിൽ ഉള്ള വ്യവസായിയെ തൻറെ സ്ഥാപനത്തിൻറെ പേര് ഉപയോഗിക്കുന്നതിൽ നിന്നും തടയുവാൻ സാധിക്കും കാരണം അന്താരാഷ്ട്രതലത്തിൽ ഉപയോഗിച്ച് വ്യവസ്ഥാപിതമായ ട്രേഡ് മാർക്കാണ് അവരുടേത് ജനസമ്മതിയും മതിപ്പും ഉള്ള വ്യവസായമാണത് ഇത് സംരക്ഷിക്കുവാൻ നിയമസംവിധാനം ഉണ്ട് അതാണ് ലോ ഓഫ് പാസിംഗ് ഓഫ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ട്രേഡ് മാർക്കുകളെ സംരക്ഷിക്കാനുള്ള നിയമ സംവിധാനമാണിത് അവർ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരിക്കാം എന്നുവരികിലും അവരുടെ ട്രേഡ്മാർക്ക് ഇവിടെയും ലോ ഓഫ് പാസിംഗ് ഓഫ് പ്രകാരം സംരക്ഷിക്കുവാൻ സാധിക്കും അതുകൊണ്ട് ലോ ഓഫ് പാസിംഗ് ഓഫ് നിയമത്തിൻറെ പഴുതുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും ദീർഘകാലത്തെ ഉപയോഗം കൊണ്ട് വ്യവസ്ഥാപിതമായ ട്രേഡ് മാർക്കിനെ സംരക്ഷിക്കുവാൻ സാധിക്കും ട്രേഡ് മാർക്ക് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും ലോ ഓഫ് പാസിംഗ് ഓഫ് പ്രകാരം ദീർഘകാലത്തേക്ക് ഇരുപതോ മുപ്പതോ വർഷത്തേക്ക് അത് ഉപയോഗിക്കുവാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അതെ ലോ ഓഫ് പാസിംഗ് ഓഫ് ഇവിടെയും നിങ്ങളുടെ സഹായത്തിന് എത്തും കാരണം നിങ്ങളത് ദീർഘകാലമായി വ്യവസായത്തിൽ ഉപയോഗിക്കുകയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല ശരിതന്നെ എന്നുവരികിലും ഒരു വിധത്തിലുള്ള മതിപ്പും ജനസമ്മതിയും നിങ്ങൾക്കുണ്ട് നമുക്ക് ചില കേസുകൾ അറിയാം വളരെ വർഷങ്ങൾക്കു മുൻപ് ആരംഭിച്ചിരിക്കുന്ന വ്യവസായ സംരംഭങ്ങളാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിന് പല കാരണങ്ങളുണ്ടാകാം സംരംഭം വളരെ ചെറുതായിരിക്കും അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളും ആകാം എന്നാൽ അടുത്ത തലമുറ ഏറ്റെടുത്തു വ്യവസായത്തെ വളരെ വിപുലപ്പെടുത്തിയിരിക്കാം അനേകം സ്ഥലങ്ങളിലേക്ക് വ്യവസായം പടർന്നുപന്തലിച്ചിട്ടുണ്ടാകാം ഈയൊരു ഘട്ടത്തിൽ അവർ രജിസ്ട്രേഷനു വേണ്ടി പോകുമായിരിക്കും കാരണം പുതിയ തലമുറയ്ക്കറിയാം രജിസ്ട്രേഷനിലൂടെ അവർക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ രജിസ്ട്രേഷൻ ഇല്ലാതെ തന്നെയും ട്രേഡ്മാർക്കിൻറെ ഗുണഫലങ്ങൾ അവർ അനുഭവിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതിനാൽ രജിസ്ട്രേഷൻ കൂടാതെതന്നെ ആണെങ്കിലും മറ്റ് ആളുകൾ ഈ ട്രേഡ്മാർക്ക് ഉപയോഗിക്കുന്നതിൽ നിന്നും തടയുവാൻ അവർക്ക് സാധിക്കും അതാണ് നമ്മൾ പറയുന്നത് ഉപയോഗത്തിലൂടെ വ്യവസ്ഥാപിതമായ ട്രേഡ് മാർക്കുകൾ എന്ന് ഇന്ന് ആളുകൾക്ക് അറിയാം കാലങ്ങളായി നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതാണെന്ന് അതുകൊണ്ടുതന്നെ മറ്റൊരാളെ ഇത് ഉപയോഗിക്കുന്നതിൽ നിന്നും തടയുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് റജിസ്ട്രേഷൻ ഇല്ലാതെതന്നെ അവകാശം നിലവിൽ വരുന്നു അത് വാക്കുകളുടെയോ ചിഹ്നങ്ങളുടെയോ രൂപത്തിലായിരിക്കും ഈ വാക്കുകളും ചിഹ്നങ്ങളും നിങ്ങൾ നൽകുന്ന ഉൽപ്പന്നത്തെയോ സേവനത്തെയോ പ്രതിനിധീകരിക്കുന്നു ഈ വാക്കുകളിലൂടെയും ചിത്രങ്ങളിലൂടെയും ആണ് ലോകം നിങ്ങളുടെ ഉൽപ്പന്നത്തെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സേവനത്തെ മനസ്സിലാക്കുന്നത് ഉപ്പിൻറെ ഒരു പാക്കറ്റിൽ നമ്മൾ ടാറ്റയുടെ ചിഹ്നം കാണുമ്പോൾ മനസ്സിലാക്കുന്നു അത് നിർമ്മിച്ചത് ടാറ്റായാണെന്ന് വാഹനങ്ങളിൽ മേൽ ചില ചിഹ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത് നിർമ്മിച്ചത് ഏത് കമ്പനിയാണെന്ന് നമ്മൾ കാണുന്നത് ടിസിഎസ് എന്ന മൂന്ന് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ആയിരിക്കാം എന്നാൽ നമുക്ക് അറിയാം അത് ടാറ്റാ ഗ്രൂപ്പിൻറെ ഉപവിഭാഗമായ ടാറ്റാ കൺസൾട്ടൻസി സർവീസസ് ആണെന്ന് അതുകൊണ്ട് ചിഹ്നങ്ങൾ നമുക്ക് ഉൽപ്പാദകനെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെയോ സേവനങ്ങളുടെയോ ഉത്ഭവത്തെക്കുറിച്ചും മറ്റും കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് ഈ ചിഹ്നങ്ങൾ ഉപകാരപ്പെടുന്നു ഈ ചിഹ്നങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ അവിടെ സംഭവിക്കുക വന്യമായ കൊള്ളയായിരിക്കും മറിച്ച് ചിഹ്നങ്ങൾ വിലമതിക്കപ്പെടുന്നു എങ്കിൽ സംരക്ഷിക്കപ്പെടുന്നു എങ്കിൽ അത് മറ്റു പല സ്ഥലങ്ങളിലും അനുവാദമില്ലാതെ ഈ ചിഹ്നങ്ങളെ ഉപയോഗിക്കുന്നതിനെ തടയുന്നു ടിസിഎസ് എന്ന ചിഹ്നം കാണുമ്പോൾ ഇപ്പോൾ ലോകം മുഴുവൻ ആളുകൾക്ക് അറിയാം ആ പ്രോഡക്റ്റ് അഥവാ ഉല്പന്നം ടാറ്റായുടേതാണെന്ന് സാധാരണ ഒരു വ്യവസായ സ്ഥാപനം ജനസമ്മതി കൊണ്ടും മതിപ്പ് കൊണ്ടുമാണ് വളരുന്നതും നിലനില്ക്കുന്നതും ട്രേഡ്മാർക്ക് അനുമതിയില്ലാതെ മറ്റ് ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും വ്യവസായത്തിൻറെ ജനസമ്മതിയെ ബാധിക്കും നമുക്കറിയാം ഓരോ വ്യവസായവും ജനസമ്മതി കൈവരിക്കുന്നത് വളരെ വർഷത്തെ പ്രവർത്തനം കൊണ്ടാണെന്ന് അതുകൊണ്ടുതന്നെ ട്രേഡ് മാർക്കുകൾ ഓരോ വ്യവസായത്തെയും പ്രതിനിധാനം ചെയ്യുന്നവയാണ് അവ വ്യവസായത്തിനൻറെ അംബാസഡർസ് ആണ് ഒരു ചിഹ്നം അത്ര വളരെ ജനസമ്മതി ഉള്ളതാണെങ്കിൽ ആ സ്ഥാപനം അറിയപ്പെടുന്നതു തന്നെ ആ ചിഹ്നത്താലായിരിക്കും അങ്ങനെയിരിക്കെ ഈ ചിഹ്നം വേറൊരാൾ എടുത്ത് ഉപയോഗിക്കുകയും ആദ്യത്തെ സ്ഥാപനം കാത്തുസൂക്ഷിക്കുന്ന ഉല്പന്നങ്ങളുടെ ഗുണനിലവാരം കാത്തുസൂക്ഷിക്കാതിരിക്കുകയും അല്ലെങ്കിൽ അത് കാത്തുസൂക്ഷിക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെ വന്നാലും ആദ്യത്തെ ആൾക്ക് രണ്ടാമത്തെ ആളെ തൻറെ ചിഹ്നം ഉപയോഗിക്കുന്നതിൽ നിന്നും തടയുവാൻ സാധിക്കും ഇനി ബ്രാൻഡിംഗിൻറെ കാര്യം ഒരുപക്ഷേ വളരെയധികം അറിയപ്പെടുന്ന വളരെയധികം ജനസമ്മതിയുള്ള ഒരു ചിഹ്നത്തെ അതിൻറെ ഉടമസ്ഥന് അതിൻറെ ആകൃതിയിലും കാഴ്ചപ്പാടിലും വ്യത്യാസം വരുത്തി റീ ബ്രാൻഡ് ചെയ്യുവാൻ സാധിക്കും ഇത്രയുമാണ് ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലവിലിരിക്കുന്ന ഒരു ട്രേഡ് മാർക്ക് ഉപയോഗിച്ച് സംരംഭകൻ വ്യവസായം ചെയ്യുന്നില്ല എങ്കിലും അദ്ദേഹത്തിൻറെ സ്വന്തമായി തന്നെ സൂക്ഷിക്കുവാൻ സാധിക്കും അതൊരിക്കലും പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധ്യമല്ല ഒരു പേറ്റൻറ് നിശ്ചിത കാലാവധി കഴിയുമ്പോൾ പൊതുസഞ്ചയത്തിലേക്ക് വരുന്നതുപോലെ ഒരു ട്രേഡ് മാർക്ക് ആ കമ്പനി അത് മറ്റുള്ളവർ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കാത്തിടത്തോളം കാലം ഒരിക്കലും പൊതുസഞ്ചയത്തിൽ വരുന്നില്ല അത് കാലാ കാലത്തോളം സജീവമായിരിക്കും ഉദാഹരണത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല എയർടെൽ ഇന്നുപയോഗിക്കുന്ന ലോഗോ അല്ല ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് എയർടെൽ അവരുടെ ലോഗോയിൽ വ്യത്യാസം വരുത്തി വ്യവസായ സംബന്ധമായ കാരണങ്ങളാലാണ് വ്യത്യാസം വരുത്തിയത് അവർ തങ്ങളുടെ ലോഗോ വ്യത്യാസപ്പെടുത്തി എന്നതിൻറെ പേരിൽ ഒരിക്കലും തങ്ങളുടെ പഴയ ലോഗോ മറ്റുള്ളവർ ഉപയോഗിക്കന്നത് താല്പര്യപ്പെടുന്നില്ല മാത്രമല്ല മറ്റുള്ള ആളുകൾ ആ ലോഗോ ഉപയോഗിക്കുന്നതിൽ നിന്നും തടയുവാൻ സാധിക്കും പേറ്റന്റിൻറെ കാര്യത്തിൽ ഇങ്ങനെ അല്ല അതിൻറെ കാലാവധി പൂർത്തിയാക്കുകയും ഏതെങ്കിലും കാരണത്താൽ അസാധുവാക്കുകയും ചെയ്താൽ പിന്നെ എല്ലാവർക്കും അതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ചായിരിക്കാം എയർടെൽ തങ്ങളുടെ ലോഗോ സജീവമായി നിലനിർത്തുന്നതിന് എന്തെങ്കിലും ഫീസ് കൊടുക്കേണ്ടതുണ്ടോ എന്ന് സജീവമായി നില നിർത്തുക എന്നു പറഞ്ഞാൽ തീർച്ചയായും ബോധപൂർവ്വം അത് നിലനിർത്തുന്നു എന്ന് തന്നെയാണ് അവർ അത് നിലനിർത്തുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് എടുത്ത് ഉപയോഗിക്കാം എന്നതിൽ ഒരു സാമാന്യയുക്തി ഉണ്ട് എന്നാൽ എയർടെല്ലിൻറെ കാര്യത്തിൽ അത് അല്പം ദുഷ്കരമായിരിക്കും കാരണം ആ ചിഹ്നം എന്നു പറയുന്നത് ഒരു വാക്കാണ് ആണ് ആ വാക്ക് അതിൽ തന്നെ ട്രേഡ് മാർക്കിൻറെ വിഷയമാണ് അതുകൊണ്ട് ആരെങ്കിലും എയർടെൽ എന്ന വാക്ക് മറ്റേതെങ്കിലും ഫോൺട് ഉപയോഗിച്ച് എഴുതിയാലും പിടിക്കപ്പെടും എയർടെൽ ലോഗോയിലെ വാക്കിനെ നിലനിർത്തിക്കൊണ്ട് രൂപത്തെ മാത്രമേ മാറ്റിയിട്ട് ഉള്ളൂ വൈദ്യശാസ്ത്രരംഗത്തെ രോഗ ചികിത്സാ രീതി എല്ലാം ചില നടപടികളും അവയുടെ ക്രമങ്ങളും ആണ് ഇവയെ പ്രോപ്പർട്ടി റൈറ്റ് ഉപയോഗിച്ച് സംരക്ഷിക്കുക സാധ്യമാണോ ഇന്ത്യൻ നിയമത്തിലെ മൂന്നാം വകുപ്പ് പ്രകാരം വൈദ്യമേഖലയിലെ എല്ലാ ചികിത്സാരീതികളും സംരക്ഷണത്തിന് പുറത്താണ് നിലനിർത്തിയിരിക്കുന്നത് അതിന് ചില ആരോഗ്യകരമായ കാരണങ്ങളുമുണ്ട് പേറ്റന്റ്സിനെ കുറിച്ച് വിശദമായി പഠിക്കുമ്പോൾ നമ്മൾ അത് അത് ചർച്ച ചെയ്യുന്നതാണ് നമ്മൾ ഡിസൈൻസ് ലേക്ക് വരികയാണ് അതും ഗവൺമെൻറ് അനുവദിച്ച നൽകുന്ന ഒരു എക്സ്ക്ലുസീവ് റൈറ്റ് ആണ് എന്ന് വച്ചാൽ രജിസ്ട്രേഷൻ ആവശ്യമാണ് ഇവിടെ ഈ അവകാശം ഒരു മാതൃകയുടെ ബാഹ്യാകാരം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് പ്രകൃത്യാ സൌന്ദര്യാത്മകമായിരിക്കണം കണ്ണിന് ആനന്ദദായകമായിരിക്കണം അതിന് പ്രവർത്തനാത്മകമായി വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കാൻ പാടില്ല കാരണം പ്രവർത്തനാത്മകമായി പ്രാധാന്യമുണ്ട് എന്ന വരികിൽ അത് പേറ്റന്റ് റൈറ്റിൻറെ വേറൊരു ശാഖയിലേക്ക് പോകുന്നതാണ് അത് നമുക്ക് കോപ്പി റൈറ്റ് വഴി പ്രൊട്ടക്ട് ചെയ്യാവുന്നതാണ് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി കോപ്പിറൈറ്റ് വഴി പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നിരിക്കെ കോപ്പിറൈറ്റിനേക്കാൾ വളരെക്കുറച്ച് മാത്രം കാലാവധി ലഭിക്കുന്ന മറ്റൊരു റൈറ്റിലേക്ക് ആരും പോവുകയില്ല നിങ്ങൾക്ക് ഒരു ഡിസൈൻ അഥവാ മാതൃക ഉണ്ടായിരിക്കുകയും അത് ഏതെങ്കിലും വിധത്തിൽ കോപ്പിറൈറ്റ് വഴി സംരക്ഷിക്കാൻ സാധ്യത ഉണ്ടായിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ മാതൃകയെ കോപ്പി റൈറ്റ് വഴി മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിൽ നിന്നും തടയുവാൻ നിങ്ങൾക്ക് സാധിക്കും കാരണം കലാപരമായ സൃഷ്ടിയാണ് ആ കലാപരമായ സൃഷ്ടിയുടെ മേൽ അവകാശലംഘനം നടന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാം കോപ്പിറൈറ്റ് വഴിയാണ് സംരക്ഷിക്കുന്നത് എങ്കിൽ അതിൻറെ ആയുസ്സ് നിങ്ങളുടെ ജീവിതകാലവും കൂടാതെ മരണശേഷം 60 വർഷവുമാണ് എന്തുകൊണ്ടാണ് ഇവ വ്യത്യസ്തമായി ഇരിക്കുന്നത് എന്നതായിരിക്കാം നിങ്ങളുടെ ചോദ്യം അത് മറ്റൊരു കാരണത്താലാണ് വ്യാവസായിക മാതൃകകൾ അതെ നമ്മൾ സംസാരിക്കുന്നത് വ്യവസായത്തിലുള്ള കലാസൃഷ്ടികളെ കുറിച്ചാണ് ഉദാഹരണത്തിന് ടൈൽസിൻറെ ഇൻറർലോക്കിംഗ് അല്ലെങ്കിൽ ടിഎംടി സ്റ്റീൽ ബാറുകൾ അവക്ക് പുതുമയുള്ള ഉള്ള മാതൃകകൾ ഉണ്ടല്ലോ എൻജിനീയറിങ് മാതൃകകൾ എൻജിനീയറിങ് എന്ന് പറയുമ്പോൾ വീണ്ടും സൌന്ദര്യസങ്കല്പം വരുന്നു എന്നാൽ ഒരു ബോട്ടിൽ എന്ന് പറയുമ്പോൾ അത് വരുന്നില്ല നിങ്ങൾ ഒരുപക്ഷേ തർക്കിക്കുമായിരിക്കും ഒരു ബോട്ടിലിന് അഥവാ ഒരു കുപ്പിയ്ക്ക് പ്രവർത്തനാത്മക ഘടകം ഉണ്ടെന്ന് എന്നാൽ ഒരു കുപ്പിയെ യുണീ ക്കാക്കുന്ന അഥവാ വ്യതിരിക്തമാക്കുന്ന അതിൻറെ മാതൃകയിലേക്കാണ് നമ്മൾ സാധാരണയായി നോക്കുക കുപ്പി എന്നുപറയുന്നത് വൻതോതിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ ഗണത്തിൽ വരുന്നു മാത്രമല്ല ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ഗണത്തിൽ ഏറ്റവും ദുർബലമാണ് കാരണം അത് എൻഫോഴ്സ് ചെയ്യുന്നതിന് ധാരാളം പരിമിതികളുണ്ട് തടസ്സങ്ങളുണ്ട് ഈ പ്രവർത്തി ചെയ്യുന്നതിൽ നിന്നും ആളുകളെ തടയുവാൻ നിങ്ങൾക്കു സാധിക്കുകയില്ല മാത്രമല്ല ഇത് മൂലം ഉണ്ടാകുന്ന നഷ്ടം വളരെ വളരെ ലഘുവാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ വഴിയെ വരുന്നതാണ് അപ്പോൾ വസ്ത്രങ്ങളോ വൻതോതിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ എന്തുമായിക്കൊള്ളട്ടെ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ എന്തുമാകട്ടെ എല്ലാം ഈ ഗണത്തിൽ വരുന്നു